ഹലോ എല്ലാവർക്കും Secure System Engineering എന്ന കോഴ്സ് വിവരണത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഡെമോ യിൽ ഒരു ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യുന്നതിനു വേണ്ടി stack എങ്ങനെ മാനിപുലേഷൻ ചെയ്യാം എന്ന് നോക്കാം ഈ demo ഉം സോഴ്സ് കോഡ് വെർച്ച്വൽ ബോക്സിൽ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാം ഇത് നിങ്ങൾ week 0 ലും week 1 ലും ഉള്ള demoയിൽ ചെയ്തിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ ഡെമോ സ്റ്റാർട്ട് ചെയ്യാം c എന്ന C പ്രോഗ്രാംഇൻറെ source code nptel codes module1 എന്ന ഡയറക്ടറി ഇൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു നമ്മൾ ഈ C കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കാണാൻ കഴിയും അതിൽ ഒരു ഫംഗ്ഷൻ മൂന്ന് പരാമീറ്റർ abc എടുത്ത് കൊണ്ട് buffer ഇൽ സിമ്പിൾ മാനിപുലേഷൻ ചെയ്യുന്നു main ഫംഗ്ഷൻ ഇൽ സീറോ വാല്യൂ ഉള്ള ഒരു ലോക്കൽ വേരിയബിൾ x ഉണ്ട് ഫംഗ്ഷൻ പരാമീറ്റർ 1 2 3 ഉപയോഗിച്ചു കൊണ്ട് ഇൻവോക്ക്യ് ചെയ്യുന്നു അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ് x1 ഉം പ്രിൻറ് ഫംഗ്ഷൻ printf"Value of X is dn"x ഉം ഉണ്ട് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഈ പ്രോഗ്രാംഇൻറെ ഔട്ട്പുട്ട് x ന്റെ value 1 ആണോ എന്നാണ് നമുക്ക് " make clean" command ഉം " make" command ഉം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്കിപ്പ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x ന്റെ value 0 എന്നാണ് x 1 എന്ന statement എക്സിക്യൂട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം GDBഇൽ കൂടിയാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ GDB gdb skipinstruction command ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് line number 14ഇൽ ബ്രേക്ക് പോയിൻറ് സെറ്റ് ചെയ്യാം line number 14 ഈ പ്രത്യേക ഫംഗ്ഷനിലേക്കുള്ള call ആണ് Breakpoint ലൈൻ നമ്പർ 14ഇൽ ഉള്ളതുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ടിങ് നിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് പോയിൻറ്ഇൽ സ്റ്റോപ്പ് ആകും അപ്പോൾ നമുക്ക് മനസ്സിലാകും ബ്രേക്ക് പോയിൻറ് ഹിറ്റ് ചെയ്തു കൂടാതെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയി ഫംഗ്ഷൻ invoke ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ന് ലൈൻ നമ്പർ 14ൽ x0 ആണ് കിട്ടുന്നത് കാരണം line number 13ൽ x 0 മായി initialise ചെയ്തു അടുത്തതായി എല്ലാ പ്രധാനപ്പെട്ട രജിസ്റ്ററുകളുടെ contentsഉം പ്രിൻറ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ കോൾ ടു ഫംഗ്ഷൻ ലൊക്കേഷൻ ആയ ഇൻസ്ട്രക്ഷൻ പോയിന്റർ കണ്ടൻറ് 8048449 ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും main ഫംഗ്ഷൻ ഫ്രെയിമിലേക്ക് പോയിൻറ് ചെയ്യുന്ന ഒരു stack poniter ഉം base pointer നമുക്ക് കാണാൻ കഴിയും ഇനി ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതു വഴി നമ്മൾ stackലേക്ക് പല ആർഗ്യുമെന്റുകൾ പുഷ് ചെയ്യുകയാണ് നമുക്ക് EIP ESP EBP ഉം പോലെയുള്ള പല രജിസ്റ്ററുകളും നോക്കാം ഇവിടെ stack പോയിന്റർ FFFFCF20ഉം ബേസ് പോയിന്റർ ഉം FFFFCF48 ഉണ്ട് കൂടാതെ ബേസ് പോയിന്റർ മാറിയിട്ടില്ല എന്നും ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നും കാണാൻ കഴിയും നമുക്ക് stackലെ ഇൻസ്ട്രക്ഷൻ സിംഗിൾ സ്റ്റെപ്സ് ആയിട്ട് നോക്കാം Stack content നമുക്ക് gdb x32x esp എന്ന് instruction ലൂടെ കിട്ടും സ്റ്റാക്കിലേക്ക് push ചെയ്യേണ്ട റിട്ടേൺ address ഇതാണ് അതിനാൽ കോൾ invoke ചെയ്ത ഉടനെ അടുത്ത ഇൻസ്ട്രക്ഷൻ അഡ്രസ് 0x08048454 ഇതാണ് ഈ return address stackൽ ഉണ്ടാകും ഇത് FFFFCF1C പ്ലസ് 4 FFFFCF20 എന്ന address ആണ് ഈ ഫംഗ്ഷനിൽ രണ്ട് ലോക്കലുകൾ ഉണ്ട് ഒരു integer ലേക്ക് പോയിൻറ് ചെയ്യുന്ന RET ഉം 16 characters ഉള്ള ഒരു ബഫറും ഉണ്ട് ഈ രണ്ട് ലോക്കൽ വേരിയബിളുകളുടെ address ഉം പ്രിൻ റ് ചെയ്യാൻ കഴിയും കൂടാതെ ഈ രണ്ട് ലോക്കൽ വേരിയബിളുകളും പുതിയതായി ഫോം ചെയ്ത stacksൽ ഉണ്ടായിരിക്കും രജിസ്റ്ററിന്റെ content gdb p x ret എന്ന കമാൻഡ് ഉപയോഗിച്ച് പ്രിൻറ് ചെയ്യാം അത് FFFFCF18 ആണ് ഇത് RETന്റെ കണ്ടൻറ് ആണ് കൂടാതെ ബഫറിന്റെ content FFFFCF08 ആണ് ബഫറിന്റെ content FFFFCF08 ൽ ആരംഭിച്ച് 16 ബൈറ്റു കളായി എക്സ്റ്റൻഡഡ് ചെയ്യുന്നു ബഫർൻറെ content 16 bytes നേക്കാൾ കൂടിയാൽ ബഫർ ഓവർ ഫ്ലോ ഉണ്ടാകും അപ്പോൾ റിട്ടേൺ അഡ്രസ് മാറുന്നതാണ് അടുത്തതായി നമ്മുടെ കാൽക്കുലേറ്റർ ഹെക്സാഡെസിമൽ മോഡി ലേക്ക് മാറ്റുക ബഫറിന്റെ locationവും റിട്ടേൺ അഡ്രസ്വും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും റിട്ടേൺ അഡ്രസ് FFFFCF20 ലൊക്കേഷനിൽ ഉണ്ടെന്നും ബഫർ FFFFCF08 ലൊക്കേഷനിൽ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാകും ഈ അഡ്രസുകൾ subtract ചെയ്യുമ്പോൾ 18 ബൈറ്റുകളുടെ ഓഫ്സെറ്റ് ഉണ്ടെന്ന് മനസ്സിലാകും ഇത് 18 ഹെക്സാഡെസിമലിലാണെന്നും ഇത് ബഫറിന്റെ ആരംഭം മുതൽ റിട്ടേൺ അഡ്രസ് വരെ 24 ബൈറ്റുകൾ ഓഫ്സെറ്റ് ഉണ്ടാക്കുന്നു ഈ ലൊക്കേഷനിൽ വെച്ച് buffer പ്ലസ് 24 ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റർ ലോക്കൽ വേരിയബിൾഇൽ സ്റ്റോർ ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്നത് റിട്ടേൺ അഡ്രസ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കുള്ള റിട്ടേൺ പോയിന്റുകളാണ് ഇത് നമുക്ക് FFFFCF18 ൽ ഉള്ള RETന്റെ നോക്കി മനസ്സിലാക്കാം RET ന് ഇപ്പോൾ പൂജ്യത്തിന്റെ വാല്യൂ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് RET വാല്യൂ മാറ്റാം ഇത് റിട്ടേൺ അഡ്രസ് ഉള്ള ലൊക്കേഷനിലേക്ക് പോയിൻറ് ചെയ്യുന്നു gdb xx 0xFFFFCF18 എന്ന കമാൻഡ് RET മെമ്മറി ലൊക്കേഷനിൽ ഡമ്പ് ചെയ്യുന്നു ഇത് നമുക്ക് പ്രിൻറ് ചെയ്യാൻ സാധിക്കും RET വാല്യൂ FFFFCF20 ആണ് ഇവിടെ നമുക്ക് നാല് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായി കാണാം കാരണം ഒരു C സ്റ്റേറ്റ്മെൻറ് നാല് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ സമാനമായതാണ് ആണ് നാല് അസംബ്ലി കോഡ് ഇൻസ്ട്രക്ഷൻ തുല്യമായ സിംഗിൾ C സ്റ്റേറ്റ്മെൻറ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിട്ടേൺ അഡ്രസ്സ് മോഡിഫൈ ചെയ്യാം റിട്ടേൺ അഡ്രസ്സ് ഇപ്പോൾ 08048454ൽ നിന്ന് 0804845Cലേക്ക് മാറിയതായി കാണാം ഈ ചേഞ്ച് ഇൻറെ implication മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് main ഫംഗ്ഷൻ ഡിസ്അസംബ്ലി ചെയ്തു നോക്കാം യഥാർത്ഥ റിട്ടേൺ അഡ്രസ്സ് 08048454 ആണ് ഈ അഡ്രസ്സ് നാം മാറ്റിയത് 08048454C അഡ്രസ്സിലേക്ക് ആണ് അടിസ്ഥാന പരമായി ഇത് ആഡ് നിർദ്ദേശം ഒഴിവാക്കി 08048454C അഡ്രസ്സിലേക്ക് ലാൻഡിംഗ് ചെയ്യുന്നു ഈ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു കഴിയുമ്പോൾ 0804845C എന്ന വാല്യൂ stackൽ നിന്ന് എടുത്തു കൊണ്ട് ഇൻസ്ട്രക്ഷൻ പോയിൻറ്റിൽ place ചെയ്യുന്നു പ്രോഗ്രാം ഇൻറെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ വാല്യൂവിനെ ബേസ് ചെയ്ത് കൊണ്ടായിരിക്കും ഇക്കാര്യം programലൂടെ സിംഗിൾ സ്റ്റെപ്പ് ചെയ്തു കണ്ടെത്താം സിംഗിൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് add instruction സ്കിപ് ചെയ്തു main പ്രോഗ്രാമിലേക്ക് മടങ്ങിയതായി കാണാം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും x0 ആയിരിക്കും x1 എന്ന് സ്റ്റേറ്റ്മെൻറ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നില്ല നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് എങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് പ്രോഗ്രാമിലേക്ക് ഒരു കോഡ് ഇഞ്ചക്ട് ചെയ്തിട്ട് payload എങ്ങനെ നിർബന്ധിച്ച് എക്സിക്യൂട്ട് ചെയ്യാമെന്നും ആണ് നമ്മൾ ഷെൽ code എടുത്തിട്ട് ഷെൽലേക്ക് ഒരു ഡമ്മി പ്രോഗ്രാം ഇഞ്ചക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും